ബയോറിയാക്ടറുകളെക്കുറിച്ചുള്ള എൻപിടിഇഎൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് 19 ലേക്ക് സ്വാഗതം ഇനിപ്പറയുന്ന സമവാക്യത്തിൽ CHmOl a NH3 b O2 → yx CHpOnNq yp CHrOsNt c H2O d CO2 കോശ ഓക്സിജൻ യീൽഡ് കോയെഫിഷൻറ് കണക്കാക്കുക Yx oഎന്നത് 𝛤𝑠 𝛤𝑥 𝛤𝑝 𝜖 𝜂 𝜁 എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഉത്പാദിപ്പിക്കുന്ന കോശങ്ങളുടെയും ഓക്സിജെൻറെ ഉപഭോഗത്തിന്റെയും ആനുപാതമാണ് കോശങ്ങളിലെ കാർബണിന്റെ മാസ്സ് ബയോമാസ് 0 5 ആണെന്ന് കരുതുക എന്താണ് അറിയേണ്ടത് നമ്മളുടെ പതിവ് ചോദ്യം നമ്മൾ നിർവചിച്ച വിവിധ അളവുകളുടെ അടിസ്ഥാനത്തിൽ Y x O2 ആണ് നമ്മൾക്ക് അറിയേണ്ടത് എന്താണ് അറിയുന്നത് അല്ലെങ്കിൽ നൽകിയത് സ്റ്റോകിയോമെട്രിക് സമവാക്യം അറിയാം ബയോമാസിലെ കാർബണിന്റെ മാസ്സ് 0 5 ആണ് പിന്നെ നൽകിയിട്ടുള്ളവയുമായി ആവശ്യമുള്ളത് എങ്ങനെ ബന്ധിപ്പിക്കും

ബയോമാസിലെ സി യുടെ പിണ്ഡം 0 5 ആണെങ്കിൽ ഉൽപാദിപ്പിക്കുന്ന ബയോമാസ് 12𝑦𝑥0

വൈവിധ്യമാർന്ന കോശങ്ങൾക്ക് 𝛤𝑥 4 2 എന്ന് നമുക്കറിയാം